പെർഫോമൻസ് മെഷേഴ്സ് ഈ ലെക്ച്ചറിൽ ഒരു ക്ലാസിഫയർ നിർമ്മിച്ചുകഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന പെർഫോമൻസ് മെഷറുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ആശയം എല്ലാത്തരം ക്ലാസിഫയറുകൾക്കും ഉപയോഗപ്രദമാണ് വാസ്തവത്തിൽ ഈ ആശയങ്ങളിൽ ചിലത് വ്യത്യസ്ത തരം ക്ലാസിഫയറുകൾ ബെഞ്ച്മാർക്ക് ചെയ്യാനും ഉപയോഗിക്കാം ഇതുപോലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാം ഏതൊരു ക്ലാസിഫയറിന്റെ r കോഡ് നിങ്ങൾ റൺ ചെയ്താലും കേസ് സ്റ്റഡീസ് എങ്ങനെ നടത്താമെന്നും ഈ ടേബിൾ എങ്ങനെ നിർമിക്കാമെന്നും വിവരിക്കുന്ന ഒരു ടീച്ചിങ് അസ്സിസ്റ്റന്റ്സ് നിങ്ങൾക്ക് കാണാം ഈ ലെക്ച്ചറിന്റെ ഉദ്ദേശ്യം ഇനിപ്പറയുന്നതാണ് കാരണം മിക്ക ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങൾക്കും ഇതുപോലൊരു റിസൽട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാൽ ഇവയെല്ലാം നോക്കുക ഉദാഹരണത്തിന് അവിടെ കൃത്യതയുണ്ട് സംവേദനക്ഷമത കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പ്രത്യേകത എന്നാൽ പോസിറ്റീവ് പ്രവചന മൂല്യം അങ്ങനെയങ്ങനെ അതിനാൽ ഞാൻ ആദ്യം ഈ ലെക്ച്ചറിൽ ഇവ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിവരിക്കാൻ പോകുന്നു നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഭാവിയിലെ എല്ലാ ലെക്ച്ചറുകളിലും നിങ്ങൾ ഇത് നോക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ക്ലാസിഫയർ എത്ര നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണും അതിനാൽ ഈ സ്ലൈഡിലെ ആദ്യ കാര്യം നമുക്ക് നോക്കാം അത് ഇതുപോലുള്ള ഒന്ന് ആണ് അതിനാൽ ഒരു കാറിന്റെ ചില ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി ഇത് ഒരു ഹാച്ച്ബാക്ക് ആണോ എസ്യുവിയാണോ എന്ന് തരംതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കേസ് സ്റ്റഡിയാണിത് ഇത് നിങ്ങൾ പിന്നീട് കാണുന്നതായിരിക്കും അതിനാൽ അതൊക്കെയായാണ് നമുക്ക് ഇവിടെയുള്ള ഒരു ഉദാഹരണ പ്രോബ്ലങ്ങൾ അതിനാൽ രണ്ട് ക്ലാസുകൾ ഹാച്ച്ബാക്കും എസ്യുവിയുമാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പട്ടികയെയാണ് കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് സാധാരണയായി ലഭിക്കുന്ന ഫലമാണിത് ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള വഴി ഇനിപ്പറയുന്നതാണ് അതിനാൽ നിങ്ങൾ ഈ പാതയിലൂടെ പോകുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റയ്ക്കായി ഈ ദിശയാണ് ആ ക്ലാസിന്റെ യഥാർത്ഥ ലേബൽ എന്നാണ് ക്ലാസിഫയർ പ്രവചിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതത്തിന്റെ റിസൾട്ട് ഉണ്ട് ഈ റിസൾട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് നോക്കാം ഈ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതത്തിൽ ഉപയോഗിച്ച ഡാറ്റാ പോയിന്റുകളുടെ ആകെ എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയുള്ള നാല് ഘടകങ്ങളും സംഗ്രഹിച്ച് അത് എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ ഈ അൽഗോരിതത്തിൽ ഉപയോഗിച്ച ഡാറ്റാ പോയിന്റുകളുടെ എണ്ണം 20 ആണ് തുടർന്ന് നമുക്ക് ഈ സംഖ്യകൾ ഓരോന്നും വ്യാഖ്യാനിക്കാം അതിനാൽ ഈ നമ്പർ കാർ ഒരു ഹാച്ച്ബാക്ക് ആണെന്നുള്ള ഒരു പ്രവചനമാണ് നടത്തിയത് കാർ യഥാർത്ഥത്തിൽ ഒരു ഹാച്ച്ബാക്ക് ആയിരുന്നു അതിനാൽ ഇവയെല്ലാം ഹാച്ച്ബാക്കുകളുടെ ശരിയായ പ്രവചനങ്ങളാണ് അതിനാൽ പ്രവചനം ഹാച്ച്ബാക്ക് ആയിരുന്നു കാറും ഹാച്ച്ബാക്ക് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ നമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൊയിലൂടെ പോകുന്നതിനാൽ പ്രവചനം ഹാച്ച്ബാക്ക് ആയിരിക്കും അതിനാൽ ഈ കാർ ഒരു ഹാച്ച്ബാക്ക് ആണെന്ന് ക്ലാസിഫയർ പ്രവചിച്ചു എന്നിരുന്നാലും റഫറൻസ് എസ്യുവിയാണ് അതിനാൽ ഇത് ഒരു എസ്യുവിയെ ഹാച്ച്ബാക്ക് എന്ന് കണ്ട തെറ്റായ ക്ലാസ്സിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ അടുത്ത വരിയിൽ പോയി ഇത് നോക്കുകയാണെങ്കിൽ പ്രവചനം ഒരു എസ്യുവി ആണെന്നും റഫറൻസ് ഹാച്ച്ബാക്ക് ആണെന്നും നിങ്ങൾ കാണും അതിനാൽ എസ്യുവിയായി പ്രവചിക്കപ്പെട്ട ഒരു ഹാച്ച്ബാക്ക് കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ 0 അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് 0 ലഭിക്കുന്നത് നിങ്ങൾ ഈ നമ്പറിലേക്ക് പോയാൽ യഥാർത്ഥ കാർ ക്ലാസ് എസ്യുവിയും പ്രവചനവും എസ്യുവിയുമാണ് അതിനാൽ 9 എസ്യുവികൾ എസ്യുവികളാണെന്ന് കൃത്യമായി പ്രവചിക്കപ്പെട്ടു അതിനാൽ ഇതാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചില നിബന്ധനകൾ നിരാകരിക്കാൻ പോകുന്നു ഈ കണക്കുകൂട്ടലുകൾ എങ്ങനെ ചെയ്യപ്പെടുന്നുവെന്ന് കാണിച്ചുതരാനും ഈ നിർവചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് കാണിക്കാനും നമ്മൾ അതേ മാട്രിക്സിലേക്ക് മടങ്ങിവരും നിങ്ങൾ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതത്തിന്റെ റിസൾട്ടുകൾ നോക്കുമ്പോഴെല്ലാം അൽഗോരിതം നന്നായി ചെയ്തോ ഇല്ലയോ എന്നതും മറ്റും നിങ്ങൾക്ക് വിലയിരുത്താനാകും അതിനാൽ മുമ്പത്തെ പട്ടികയിൽ നമ്മൾ ഇത് ഈ രൂപത്തിൽ ഇട്ടപ്പോൾ ഇത് ഒരു യഥാർത്ഥ അവസ്ഥയായിരുന്നു എന്ന മുൻ പട്ടികയിലെ ഞാൻ പറഞ്ഞ റഫറൻസ് ഓർക്കുക അതിനാൽ ഇതായിരുന്നു യഥാർത്ഥ അവസ്ഥ ഇതായിരുന്നു ഹാച്ച്ബാക്ക് ഇതായിരുന്നു യഥാർത്ഥ അവസ്ഥ ഇതായിരുന്നു എസ്യുവി അങ്ങനെ പലതും ഇതാണ് പ്രവചിക്കപ്പെട്ടത് അതിനാൽ ഇവിടെ താഴേക്ക് നിങ്ങൾക്ക് ഒരു പ്രവചനം ലഭിക്കും ഇതാണ് സത്യം അതിനാൽ നിങ്ങൾ ഇത് ഇവിടെത്തന്നെ എടുക്കുകയാണെങ്കിൽ യഥാർത്ഥ അവസ്ഥ പോസിറ്റീവ് ആണ് പ്രവചിച്ച അവസ്ഥയും പോസിറ്റീവ് ആണ് അതിനാൽ ഇതിനെയാണ് നമ്മൾ ട്രൂ പോസിറ്റീവ് റിസൾട്ട് എന്ന് വിളിക്കുന്നത് അതിനാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക ഈ പോസിറ്റീവിൽ രണ്ടാമത്തെ വാക്ക് പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യ വാക്ക് പ്രവചനത്തിന്റെ സത്യത്തെയോ അസത്യത്തെയോ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ശരിയായ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ പ്രവചനത്തെക്കുറിച്ചും യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ഉണ്ട് കാരണം ഇത് ഒരു പോസിറ്റീവ് പ്രവചനമാണെന്നും അത് ശരിയാണെന്നും ഞാൻ പറഞ്ഞാൽ യഥാർത്ഥ അവസ്ഥയും പോസിറ്റീവ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾ ഒരേ റോയിലാണ് പ്രവചനം പോസിറ്റീവ് ആയി തുടരുന്നു എന്നിരുന്നാലും ആദ്യ വാക്ക് പറയുന്നത് ഇത് പോസിറ്റീവിന്റെ തെറ്റായ പ്രവചനമാണെന്നാണ് അതിനാൽ യഥാർത്ഥ അവസ്ഥ നെഗറ്റീവ് ആണ് അതിനാൽ ഇത് ക്ലാസിഫയറിന്റെ ഒരു തെറ്റാണ് ഇത് ക്ലാസിഫയറിന്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോയിൽ പോയാൽ പ്രവചിച്ച അവസ്ഥ നെഗറ്റീവ് ആയതിനാൽ രണ്ടാമത്തെ വരിയിലെ പ്രവചനങ്ങൾ എല്ലാം നെഗറ്റീവ് ആണ് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രവചനം നെഗറ്റീവ് ആണ് എൻ കാണാം എന്നാൽ ഈ പ്രവചനം തെറ്റാണ് അതിനാൽ അവസ്ഥ പോസിറ്റീവ് ആണ് എന്നതാണ് സത്യം അതിനാൽ ഇത് ക്ലാസിഫയറിന്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ പരാജയം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ നമ്മൾ ഒരേ നിരയിൽ ആയതിനാൽ പ്രവചനം നെഗറ്റീവ് ആണ് ഈ പ്രവചനം ശരിയാണെന്ന് നമുക്ക് അറിയാം അതിനാൽ യഥാർത്ഥ അവസ്ഥയും നെഗറ്റീവ് ആണ് ഇത് വീണ്ടും ഒരു വിജയകരമായ കേസ് ആണ് അതിനാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഡയഗണൽ മൂലകങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ o ഡയഗണൽ മൂലകങ്ങൾ പൂജ്യമാണെങ്കിൽ ചില അർത്ഥത്തിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ക്ലാസിഫയർ ഉണ്ട് എന്ന് പറയാം ക്ലാസിഫയർ തെറ്റുകളൊന്നും വരുത്തിയതുമില്ല ഇപ്പോൾ സ്ഥിതിവിവരക്കണക്കുകളിൽ ഇതിനെ പവർ ഓഫ് ദ ടെസ്റ്റ് എന്നും ഇതിനെ ടൈപ്പ് വൺ എറർ എന്നും ടൈപ്പ് ടു എറർ എന്നും പറയുന്നു ഇപ്പോൾ ആ നാല് സംഖ്യകളെ അടിസ്ഥാനമാക്കി ഒരു ക്ലാസിഫയറിന്റെ പെർഫോമൻസ് അളക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവസാന സ്ലൈഡിൽ പറഞ്ഞതെല്ലാം ഈ ഒരു സ്ലൈഡിൽ സമ്മറൈസ് ചെയ്തെന്ന് ഉറപ്പാക്കാം അതിനാൽ ട്രൂ പോസിറ്റീവിന് TP എന്ന നൊട്ടേഷനും ട്രൂ നെഗറ്റീവിന് TN എന്ന നൊട്ടേഷനും ഫാൾസ് പോസിറ്റീവിന് FP യും ഫാൾസ് നെഗറ്റീവിന് FN എന്നീ നൊട്ടേഷനുകൾ ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ TP എന്ന് പറഞ്ഞാൽ പ്രവചനം പോസിറ്റീവ് ആണെന്നും യഥാർത്ഥ അവസ്ഥയും പോസിറ്റീവ് ആണെന്നും ആണ് അതിനാൽ പോസിറ്റീവ് ലേബലുകളുടെ ശരിയായ തിരിച്ചറിയൽ ഇതാണ് അപ്പോൾ TN എന്നാൽ പ്രവചനം നെഗറ്റീവ് ആണ് അതാണ് സത്യം അതിനാൽ നെഗറ്റീവ് ലേബലുകളുടെ ശരിയായ തിരിച്ചറിയൽ F P P യും പ്രവചനം പോസിറ്റീവും ആണ് അത് തെറ്റാണ് അതിനാൽ പോസിറ്റീവ് ലേബലുകളുടെയും FN ന്റെയും തെറ്റായ ഐഡന്റിഫിക്കേഷൻ നമ്മൾ നെഗറ്റീവ് ആയി പ്രവചിക്കുന്നു എന്നാൽ അത് തെറ്റായ ഒരു ഐഡന്റിഫിക്കേഷനാണ് നമ്മൾ പ്രവർത്തിച്ച സാമ്പിളുകളുടെ ആകെ എണ്ണം TP TN FP FN ആയിരിക്കണമെന്നും നമുക്ക് കാണാൻ കഴിയും കാരണം ഏത് ലേബലിനെയും ഈ നാല് സാധ്യമായ റിസൾട്ടുകളിൽ ഒന്നായി നമുക്ക് തരംതിരിക്കാം അതിനാൽ ക്ലാസിഫയർ എത്രത്തോളം കൃത്യമാണ് എന്നതാണ് ആദ്യത്തെ നിർവചനം എല്ലാ സാമ്പിളുകളിലും എത്ര തവണ ക്ലാസിഫയർ ഫലം ശരിയായി ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൃത്യത വളരെ ലളിതമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് യഥാർത്ഥ പോസിറ്റീവ് യഥാർത്ഥ നെഗറ്റീവ് തെറ്റായ പോസിറ്റീവ് തെറ്റായ നെഗറ്റീവ് എന്നിവ ഉണ്ടായിരുന്നു അതിനാൽ ആദ്യത്തെ ലെറ്റർ നിങ്ങളോട് ക്ലാസിഫയറിന്റെ സത്യമോ വിജയമോ പറയുന്നുവെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ നാല് കേസുകളിലും യഥാർത്ഥ പോസിറ്റീവും യഥാർത്ഥ നെഗറ്റീവും വിജയ കേസുകളാണ് ഇവ പരാജയ കേസുകളാണ് ബാക്കി രണ്ട് കേസുകൾ അതിനാൽ കൃത്യത യഥാർത്ഥ പോസിറ്റീവുകളെ യഥാർത്ഥ നെഗറ്റീവുകളോട് കൂട്ടി അതിനെ മൊത്തം സാമ്പിളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് എനിക്ക് എത്ര തവണ ലഭിച്ചു അത് ശരിയാണ് അല്ലെങ്കിൽ എത്ര തവണ ക്ലാസിഫയർ അത് ശരിയാക്കി എന്ന് ഇത് നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ N ഇവയുടെയെല്ലാം ആകെത്തുകയാണ് അവസാന സ്ലൈഡിൽ നിന്ന് ഇവ o ഡയഗണൽ മൂലകങ്ങളാണെന്ന് നമുക്ക കാണാം കൂടാതെ 0 o ഡയഗണൽ മൂലകങ്ങളുള്ള ഒന്നാണ് മികച്ച ക്ലാസിഫയർ എന്നും ഞാൻ പറഞ്ഞു അതിനാൽ ഈ നാലിന്റെയും ആകെത്തുക N ആയിരിക്കുമ്പോൾ ഇവ രണ്ടും 0 N ആണെങ്കിൽ TP TN ആയി മാറും അതിനാൽ കൃത്യത 1 അല്ലെങ്കിൽ കൃത്യതയ്ക്ക് എടുക്കാവുന്ന പരമാവധി മൂല്യം 1 ആണ് അതിനാൽ ക്ലാസിഫയറുകളുടെ പെർഫോമൻസ് പഠിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന അളവുകോലാണ് ഇത് ഇപ്പോൾ മറ്റ് നിർവചനങ്ങൾ സെൻസിറ്റിവിറ്റിക്ക് ഒരു നിർവചനം ഉണ്ട് പോസിറ്റീവ് ലേബലുകൾ മാത്രം തിരിച്ചറിയുന്നതിൽ ക്ലാസിഫയർ എത്രത്തോളം ഫലപ്രദമാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നാല് സന്ദർഭങ്ങളിൽ വീണ്ടും നമുക്ക് ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് ഫാൾസ് പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് എന്നിവ നോക്കാം ഐഡന്റിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ക്ലാസിഫയർ പോസിറ്റീവ് ലേബൽ ഫലപ്രദമായി തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്നതാണ് സത്യം അതിനാൽ ക്ലാസിഫയർ പോസിറ്റീവ് ലേബലുകൾ തിരിച്ചറിഞ്ഞത് ഇതാണ് അതിനാൽ അത് ന്യൂമറേറ്ററിലേക്ക് പോകുന്നു അതിനാൽ പോസിറ്റീവ് ലേബലുകൾ തിരിച്ചറിയുന്നതിനുള്ള ഫലപ്രാപ്തി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഡാറ്റയിൽ ഉണ്ടായിരുന്ന എല്ലാ പോസിറ്റീവ് ലേബലുകളിൽ നിന്നും എന്റെ ക്ലാസിഫയർ എത്ര തവണ പോസിറ്റീവ് ലേബലുകൾ ശരിയായി തിരിച്ചറിഞ്ഞു എന്നതാണ് നമുക്ക് വേണ്ടത് അതിനാൽ പുതിയ ഡിനോമിനേറ്റർ ഡാറ്റയിലെ മൊത്തം പോസിറ്റീവ് ലേബലുകളുടെ എണ്ണമായിരിക്കണം അതിനാൽ ഇതൊരു പോസിറ്റീവ് ലേബലാണ് യഥാർത്ഥ അവസ്ഥ ഇവിടെയും ശരിയാണ് കാരണം ഇത് നെഗറ്റീവ് ആണ് പ്രവചനം പോസിറ്റീവും ആണ് എന്നാൽ യഥാർത്ഥ അവസ്ഥ ഫാൾസ് ആണ് അതിനാൽ ഇതും ഒരു നെഗറ്റീവ് ലേബൽ ആണ് ഇവിടെ പ്രവചനം നെഗറ്റീവ് ആണ് പക്ഷേ അത് തെറ്റാണ് അതിനാൽ യഥാർത്ഥ അവസ്ഥ പോസിറ്റീവ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഡാറ്റയിലെ ആകെ പോസിറ്റീവ് ലേബലുകളുടെ എണ്ണം എടുക്കണമെങ്കിൽ അത് TP FN ആയിരിക്കും അതിനാൽ നിങ്ങൾ TP യെ TP FN കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്ന ഒന്ന് ലഭിക്കും മറുവശത്ത് നെഗറ്റീവ് ലേബലുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്ലാസിഫയറിന്റെ ഫലപ്രാപ്തിയാണ് സ്പെസിഫിസിറ്റി അതേ ലോജിക് ഉപയോഗിക്കുമ്പോൾ സ്പെസിഫിസിറ്റി FE TN വഴി TN ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും കാരണം ഇവ മൊത്തം നെഗറ്റീവ് ലേബലുകളുടെ എണ്ണമാണ് എല്ലാ നെഗറ്റീവ് ലേബലുകളിലും ഇത് ശരിയായി തിരിച്ചറിഞ്ഞു അതിനാൽ ട്രൂ നെഗറ്റീവും ഫാൾസ് പോസിറ്റീവും നെഗറ്റീവ് ലേബലുകൾ ആയിരിക്കും ഇതിന്റെ യഥാർത്ഥ അവസ്ഥയും നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഈ അനുപാതം നിങ്ങൾക്ക് ഇതേപോലെ ലഭിക്കും Se സെൻസിറ്റിവിറ്റിയുടെയും Sp സ്പെസിസിറ്റിയുടെയും മൂല്യങ്ങൾ രണ്ടും 0 നും 1 നും ഇടയിലായിരിക്കണമെന്നും മികച്ച ഫലം രണ്ടും 1 ആയിരിക്കുമ്പോഴാണെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ശ്രദ്ധിക്കാനാകും അതിനാൽ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് നടപടികളാണിത് കൂടാതെ മറ്റൊരു അളവുകോലുമുണ്ട് അത് ബാലൻസ്ഡ് അക്ക്യൂറസി ആണ് അത് സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി എന്നതിനെ 2 കൊണ്ട് ഭരിച്ച കിട്ടിയതാണ് ഇത് സെൻസിറ്റിവിറ്റിയുടെയും സ്പെസിസിറ്റിയുടെയും ശരാശരിയാണ് നമുക്ക് ഇതിലേക്ക് മടങ്ങാം കാരണം ഇവ രണ്ടും ഒരർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് കൂടാതെ തന്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറയും അവിടെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും 1 ആവാനുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ എല്ലായ്പ്പോഴും 1 ആകാനുള്ള സ്പെസിഫിസിറ്റി ലഭിക്കും എന്നാൽ അവ വ്യക്തമായി നിങ്ങളോട് പറയും അവ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഫലപ്രദമായ ക്ലാസിഫയറുകൾ ആയിരിക്കില്ല എന്ന് അവിടെ മറ്റ് ചില നടപടികളുണ്ട് പ്രെവലൻസ് എന്ന് വിളിക്കുന്ന ഒരു മെഷർ ഉണ്ട് ഇത് നമ്മുടെ സാമ്പിളിൽ എത്ര തവണ ഈ അവസ്ഥ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നു അതിനാൽ ഞങ്ങളുടെ സാമ്പിളിൽ എത്ര പോസിറ്റീവ് ലേബലുകൾ ഉണ്ട് അറിയാം അതിനാൽ ട്രൂ പോസിറ്റീവ് ഒരു പോസിറ്റീവ് ലേബലും ഫാൾസ് നെഗറ്റീവ് ഒരു ഫാൾസ് പോസിറ്റീവ് ലേബലും ആണ് കാരണം പ്രവചനം നെഗറ്റീവ് ആയിരുന്നു പക്ഷേ അത് തെറ്റാണ് അതിനാൽ യഥാർത്ഥ അവസ്ഥ പോസിറ്റീവ് ആണ് അതിനാൽ സാമ്പിൾ സ്പെയ്സിലെ മൊത്തം സംഖ്യ കൊണ്ട് ഹരിക്കുന്നത് നിങ്ങൾക്ക് പ്രെവലൻസ് നൽകും ഇപ്പോൾ പോസിറ്റീവ് പ്രവചന മൂല്യം ഇനിപ്പറയുന്നതാണ് ക്ലാസിഫയർ നിരവധി ലേബലുകൾ പോസിറ്റീവ് ആയി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എത്ര അനുപാതമാണ് ശരിയായ ഫലം എന്ന നോക്കണം അതിനാൽ ഇവയെല്ലാം പോസിറ്റീവ് എന്ന് ക്ലാസിഫയർ തിരിച്ചറിഞ്ഞാൽ ഇതിന് ഒരു അനുപാതമുണ്ട് എന്നത് ശരിയാണ് പോസിറ്റീവ് ആയി തിരിച്ചറിഞ്ഞ ലേബലുകളിലെ ശരിയായ ഫലങ്ങളുടെ അനുപാതത്തെയാണ് പോസിറ്റീവ് പ്രവചന മൂല്യം എന്ന് വിളിക്കുന്നത് അതുപോലെ ഒരു ക്ലാസിഫയർ നിരവധി സാമ്പിളുകളെ നെഗറ്റീവ് ആയി തിരിച്ചറിയുകയാണെങ്കിൽ അതിനുള്ളിലെ ശരിയായ ഫലങ്ങളുടെ അനുപാതത്തെയാണ് നെഗറ്റീവ് പ്രവചന മൂല്യം എന്ന് വിളിക്കുന്നത് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ഇത് മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലും മറ്റും മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഡെങ്കിപ്പനി പരിശോധന നടത്താൻ പോയാൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ ആ റിസൾട്ട് എത്രത്തോളം ശരിയാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സംഖ്യയും മറ്റും അതിനാൽ ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട മറ്റ് നടപടികളാണ് ഇവ കൂടാതെ അവിടെ ഡിറ്റക്ഷൻ റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് അത് ട്രൂ പോസിറ്റീവ് ആയി നിർവചിക്കപ്പെടുന്നു അത് മൊത്തം സാമ്പിളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു കൂടാതെ ഡിറ്റക്ഷൻ പ്രെവലൻസ് ഇത് ട്രൂ പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവിനെ N കൊണ്ട് ഹരിക്കുന്നതാണ് അതിനാൽ ഇവ കണക്കാക്കാൻ എളുപ്പമാണ് കൂടാതെ വ്യാഖ്യാനങ്ങളുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന അവസാന സംഖ്യയെ Κ നമ്പർ അല്ലെങ്കിൽ Κ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു റാൻഡം ചാൻസ് ബേസ്ഡ് ക്ലാസിഫയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് ഫലത്തെയും അടിസ്ഥാനപരമായി മാനദണ്ഡമാക്കുന്ന ഒന്നാണ് അതിനാൽ ഇത് മറ്റ് നടപടികളേക്കാൾ അൽപ്പം സങ്കീർണ്ണമാണ് അതിനാൽ ഞാൻ ഇത് ഡിനേ ചെയ്യാൻ പോകുകയാണ് തുടർന്ന് ഇതിന്റെ സൂത്രവാക്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നു അതിനാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് Κ നിങ്ങൾക്ക് നിരീക്ഷിച്ച കൃത്യത നൽകുന്നു അതിന്റെ ഫലമായി ക്ലാസിഫയർ നിങ്ങൾക്ക് നൽകുന്നതെന്തും ഒരു ക്ലാസിഫയറിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരിക്കും ക്രമരഹിതമായ അവസരം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 1 കൊണ്ട് ഹരിച്ചാണ് പ്രതീക്ഷിച്ച കൃത്യത ലഭിക്കുന്നത് അതിനാൽ ഇതാണ് Κ യുടെ നിർവചനം അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നിരീക്ഷിച്ച കൃത്യത പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കണം എന്നായിരിക്കുമല്ലോ അതിനാൽ ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമായ ഒരു ഫോർമുലയാണെങ്കിൽ അതിനാൽ ഞാൻ abcd ഒരു ട്രൂ പോസിറ്റീവ് ഫാൾസ് പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് ട്രൂ നെഗറ്റീവ് എന്നിങ്ങനെ നിർവചിച്ചിട്ടുണ്ടെങ്കിൽ Κ യുടെ കണക്കുകൂട്ടൽ ഇതാണ് നിങ്ങൾ ഈ കണക്കുകൂട്ടൽ നടത്തേണ്ടതില്ല ഇത് കോഡിൽ നിന്ന് പുറത്തുവരുന്നു എന്നാൽ ഈ നമ്പറുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം അതിനാൽ നമുക്ക് അതേ ഉദാഹരണത്തിലേക്ക് മടങ്ങാം തുടർന്ന് ഈ ഉദാഹരണത്തിനായി ഈ സംഖ്യകൾ നോക്കാം നമ്മൾ ഹാച്ച്ബാക്കുകളെയും എസ്യുവികളെയും കുറിച്ച് സംസാരിച്ചു നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ലേബലിനെക്കുച്ചോ ഒരു നെഗറ്റീവ് ലേബലിനെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ മെഷേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ഇവയിലൊന്ന് പോസിറ്റീവ് ലേബലോ നെഗറ്റീവ് ലേബലോ ആക്കണം നിങ്ങൾക്ക് ഇതിലൊന്ന് പോസിറ്റീവോ നെഗറ്റീവോ ആക്കാം എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇതുപോലൊരു റിസൾട്ട ഉണ്ടാകാം അത് R ൽ കാണിച്ചിരിക്കുന്നു ആദ്യത്തേത് പോസിറ്റീവ് ലേബലും രണ്ടാമത്തേത് നെഗറ്റീവ് ലേബലുമാണ് പോസിറ്റീവ് ക്ലാസ് ഹാച്ച്ബാക്ക് എന്ന് ഇവിടെ കാണാം അതിനാൽ ഇതാണ് പോസിറ്റീവ് ലേബൽ അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം ഉദാഹരണത്തിനായി നമുക്ക് ഈ കണക്കുകൂട്ടലുകളെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം അതിനാൽ നമുക്ക് ഈ നമ്പർ നോക്കാം ഇത് എന്താണെന്ന് നമുക്ക് കാണാം അതിനാൽ പ്രവചനം ഒരു ഹാച്ച്ബാക്ക് ആണ് സത്യവും ഒരു ഹാച്ച്ബാക്ക് ആണ് അതിനാൽ ഇത് ശരിക്കും പോസിറ്റീവ് ആണ് ഇപ്പോൾ ഇവിടെ പ്രവചനം ഹാച്ച്ബാക്ക് ആണ് എന്നാൽ സത്യം എസ്യുവിയാണ് അതിനാൽ ഇതൊരു തെറ്റായ പോസിറ്റീവ് ആണ് ഇവിടെ പ്രവചനം ഒരു എസ്യുവിയാണ് സത്യം ഒരു ഹാച്ച്ബാക്ക് ആണ് അതിനാൽ ഇതിനെയാണ് ഞാൻ ഫാൾസ് നെഗറ്റീവ് എന്ന് വിളിക്കുന്നത് ഇവിടെ പ്രവചനം എസ്യുവിയാണ് സത്യവും എസ്യുവിയാണ് അതിനാൽ ഞങ്ങൾ ഇതിനെ ട്രൂ നെഗറ്റീവ് എന്ന് വിളിക്കും അതിനാൽ ട്രൂ പോസിറ്റീവ് 10 ഫാൾസ് പോസിറ്റീവ് 1 ഫാൾസ് നെഗറ്റീവ് 0 ട്രൂ നെഗറ്റീവ് 9 അതിനാൽ ഇതാണ് ഇപ്പോൾ നമുക്കുള്ളത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫോർമുലകളിലൂടെ പോകാം എന്നിട്ട് ഇതെല്ലാം യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് അത് എത്ര തവണ ശരിയായി ലഭിച്ചു എന്നതാണ് കൃത്യത അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ എല്ലാ ഡയഗണൽ ഘടകങ്ങളും സംഗ്രഹിച്ചാൽ അത് ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് ആയിരിക്കും അത്രയും തവണയാണ് നമ്മൾ ഇത് ശരിയാക്കിയത് അതിനാൽ കൃത്യതയ്ക്കുള്ള ന്യൂമറേറ്റർ 19 നെ മൊത്തം സാമ്പിളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും അത് 20 ആണ് അതിനാൽ ഇതിനുള്ള ഉത്തരം 0 95 ആണെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി നോക്കുമ്പോൾ ട്രൂ പോസിറ്റീവിനെ ട്രൂ പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് കൊണ്ട് ഹരിച്ചിട്ടാണ് സെന്സിറ്റിവിറ്റിയെ നിർവചിച്ചിരിക്കുന്നത് അതിനാൽ ഇങ്ങനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കാണിക്കുന്നത് അതിനാൽ ഇത് 10 നെ 10 0 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ 1 ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് സ്പെസിഫിസിറ്റി 0 9 ആണെന്ന് പരിശോധിക്കാം ഇനി നമുക്ക് പോസിറ്റീവ് പ്രവചന മൂല്യം നോക്കാം പോസിറ്റീവ് എന്ന് തിരിച്ചറിഞ്ഞ എല്ലാ ലേബലുകളിലും ഉള്ള ഒന്നാണ് പോസിറ്റീവ് പ്രവചന മൂല്യം അവയിൽ എത്രയെണ്ണം യഥാർത്ഥ പോസിറ്റീവ് ആയിരുന്നു അതിനാൽ ഇത് അതാണ് അതിനാൽ ഇത് ട്രൂ പോസിറ്റീവിനെ ട്രൂ പോസിറ്റീവ് ഫാൾസ് പോസിറ്റീവ് കൊണ്ട് ഹരിച്ചിരിക്കുന്നതാണ് കാരണം നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവ് എന്ന് തിരിച്ചറിയപ്പെടുന്ന എല്ലാ ലേബലുകളെയും കുറിച്ചാണ് അതായത് എത്ര എണ്ണം ശരിയാണ് എന്നത് അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ മാറ്റിസ്ഥാപിക്കും അതിനാൽ ട്രൂ പോസിറ്റീവ് 10 ഉം ഫാൾസ് പോസിറ്റീവ് 1 ഉം ആണ് അതിനാൽ 10 നെ 11 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 0 9091 എന്ന സംഖ്യ ലഭിക്കും നെഗറ്റീവ് പ്രവചനം എത്ര തവണ ശരിയാണ് എന്നതായിരിക്കും നെഗറ്റീവ് പ്രവചന മൂല്യം എല്ലാ പ്രവചനങ്ങൾക്കും ഇടയിൽ നെഗറ്റീവ് ആയി ഇതിന് പോസിറ്റീവ് പ്രവചന മൂല്യവുമായി വളരെ സാമ്യമുണ്ട് ഇത് ഉപയോഗിക്കാൻ ഞാൻ മുമ്പ് കാണിച്ച ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ നെഗറ്റീവ് പ്രവചന മൂല്യം ട്രൂ നെഗറ്റീവ് ഫാൾസ് നെഗറ്റീവ് ആകും അതിനാൽ വീണ്ടും നെഗറ്റീവ് എന്ന് പ്രവചിക്കപ്പെട്ട എല്ലാ ലേബലുകളിലും എത്രയെണ്ണം ശരിയാണ് അതിനാൽ നിങ്ങൾ ഈ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ട്രൂ നെഗറ്റീവ് 9 നെ ട്രൂ നെഗറ്റീവ് കൊണ്ട് ഹരിക്കുന്നു 9 ഫാൾസ് നെഗറ്റീവ് 0 അതിനാൽ 9 കൊണ്ട് 9 ഹരിച്ചാൽ അത് 1 ആണ് അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ ലെക്ച്ചറിന്റെ സ്ലൈഡിലുള്ള സൂത്രവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വളരെ ലളിതമായ കണക്കുകൂട്ടലുകളാണ് മറ്റ് പ്രിവാലൻസ് ഡിറ്റക്ഷൻ റേറ്റ് ഡിറ്റക്ഷൻ പ്രിവാലൻസ് കൂടാതെ ബാലൻസ്ഡ് അക്ക്യൂറസി എന്നിവ അതിനാൽ ഒരു ക്ലാസിഫയറിനായി ഒരു R കോഡിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആശയം നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ ഈ Κ മൂല്യം ഇവിടെ ഉണ്ടെന്നും അത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ച സങ്കീർണ്ണമായ ഫോർമുലയെ അടിസ്ഥാനമാക്കിയാണെന്നും നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഇതിനുള്ള നല്ല മൂല്യങ്ങൾ എന്താണെന്ന് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കൊരു അൽപ്പം സബ്ജെക്ടിവിറ്റി വരുന്നു ആപ്ലിക്കേഷനുകൾ ഉണ്ട് എവിടെ എന്ന നിങ്ങൾ പറയേണ്ടി വരും സെൻസിറ്റിവിറ്റി വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ അവിടെ ആപ്പ്ളിക്കേഷനുകൾ ഉണ്ടാകാം സ്പെസിഫിസിറ്റി വളരെ കൂടുതലാണ് സെൻസിറ്റിവിറ്റിയേക്കാൾ സ്പെസിഫിറ്റി കുറച്ചുകൂടി പ്രധാനമാണെന്ന് പറയുക ഇത് ഒരു തരത്തിൽ ആപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഈ റിസൾട്ടുകൾ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ച് ഈ സംഖ്യകളിൽ ഏതാണ് പ്രധാനമെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത് എന്നിരുന്നാലും നമ്മൾ ഈ ലെക്ച്ചറിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇവയ്ക്കെല്ലാം കണക്കുകൂട്ടലുകൾ നൽകുക എന്നതാണ് R എന്നതിൽ നിങ്ങൾ കേസ് സ്റ്റഡികളുമായി പ്രവർത്തിക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹാൻഡി റെഫെറെൻസ് ആണ് അവസാന വക്രത്തിൽ പല പേപ്പറുകളിലും കാണുകയും റിപ്പോർട്ടുചെയ്യുകയും ചെയ്യുന്ന ROC എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഈ വക്രമാണ് ഇത് റിസീവർ പ്രവർത്തന സവിശേഷതകളുടെ ചുരുക്കെഴുത്താണ് ഇത് ആദ്യം വികസിപ്പിച്ചതും സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയിൽ ഉപയോഗിച്ചതുമാണ് ഈ ROC കർവ് എന്താണെന്നത് ഇത് സെന്സിറ്റിവിറ്റിയും 1 സ്പെസിഫിസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് ആണ് ഇത് 1 സ്പെസിഫിസിറ്റി ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെൻസിറ്റിവിറ്റിക്കുള്ള ഏറ്റവും മികച്ച മൂല്യം 1 ആണെന്നും സ്പെസിഫിറ്റിക്കുള്ള ഏറ്റവും മികച്ച മൂല്യം 1 ആണെന്നും വളരെ വ്യക്തമായി നമ്മൾക്കറിയാം അതിനാൽ ഈ സെൻസിറ്റിവിറ്റി കർവിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നായിരിക്കണം ഇവ രണ്ടും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രത്യേക സെൻസിറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ ഇതാണ് ROC കർവ് ഇത് ഇവിടെത്തന്നെയാണ് ഇതാണ് ROC കർവ് അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക സെൻസിറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെന്സിറ്റിവിറ്റി കൂടുതൽ കൂടുതൽ ആകാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ 0 7 ലേക്ക് പോകൂ എന്ന് പറയുന്നു തുടർന്ന് ഇത് 0 22 ആണെന്ന് പറയാം അതിനാൽ നമുക്ക് പറയാം പ്രത്യേകത 0 78 ആണ് കാരണം 0 22 1 ആണ് സ്പെസിഫിറ്റി അതിനാൽ ഇത് ഏറ്റവും മികച്ച സ്പെസിഫിസിറ്റി ആണെന്ന് ചിന്തിക്കാനുള്ള വഴിയാണ് ശരി കാരണം 0 1 സ്പെസിഫിറ്റി 0 ആണ് സ്പെസിഫിറ്റി 1 ആണെന്ന് എന്നോട് പറയും അതിനാൽ ഇത് സ്പെസിഫിറ്റിക്ക് ഏറ്റവും മികച്ച പോയിന്റാണ് എന്നാൽ ഇത് സെൻസിറ്റിവിറ്റിക്ക് ഏറ്റവും മോശം പോയിന്റാണ് കാരണം സെൻസിറ്റിവിറ്റി 0 ആണ് ഇപ്പോൾ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കൂടുതൽ കൂടുതൽ ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ കർവിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മികച്ച സ്പെസിഫിസിറ്റി പോയിന്റിൽ നിന്ന് അകന്നുപോകുകയാണ് അതിനാൽ ഇത് ഏറ്റവും മികച്ച സ്പെസിസിറ്റിയിലും മോശം സെൻസിറ്റിവിറ്റിയിലും ഉള്ളതാണ് നിങ്ങൾ ഈ സെൻസിറ്റിവിറ്റി കൂടുതൽ കൂടുതൽ പുഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മികച്ച സ്പെസിഫിസിറ്റി പോയിന്റിൽ നിന്ന് നിങ്ങൾ കൂടുതൽ അകന്നു പോകുന്നു അതിനാൽ അവബോധപൂർവ്വം നിങ്ങൾക്ക് ഒരു നല്ല ROC കർവ് വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ചരിവാണ് ഇതുപോലുള്ള ഒന്ന് അതിനാൽ ഞാൻ സെൻസിറ്റിവിറ്റിയിൽ നിന്ന് അകന്നുപോകുമ്പോൾ വളരെയധികം സ്പെസിഫിസിറ്റികൾ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ കർവ് ഇതുപോലെയാണെങ്കിൽ അത് നല്ലതാണ് കാരണം അതേ 0 7 ൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഇത്രയും മാത്രം ഈ കർവിനായി ഉപേക്ഷിച്ചു എന്ന് കാണാം എനിക്ക് ഇത്രയും ഉപേക്ഷിക്കേണ്ടിവരുന്നു ഇത് കൂടുതൽ മൂർച്ചയുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉപേക്ഷിക്കുക അതിനാൽ ഈ കർവ് തരത്തിലുള്ള ബെഞ്ച്മാർക്കുകൾ ഉള്ള വ്യത്യസ്ത ക്ലാസിഫയറുകൾ ഉണ്ട് അതാണ് ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും മികച്ച സെൻസിറ്റിവിറ്റി വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ സ്പെസിഫിസിറ്റിയെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വളരെ നിസ്സാരമായ ഒരു പരിഹാരമാണ് കാരണം ഓർക്കുക സെൻസിറ്റിവിറ്റി എങ്ങനെ നിർവചിക്കപ്പെടുന്നു എന്ന് TP യെ TP ഫാൾസ് നെഗറ്റീവ് കൊണ്ട് ഹരിച്ചാണ് സെൻസിറ്റിവിറ്റി നിര്വചിക്കപ്പെട്ടിരിക്കുന്നത് സെൻസിറ്റിവിറ്റി നിർവചിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ എനിക്ക് എത്ര തവണ ട്രൂ പോസിറ്റീവ് ലഭിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക സെന്സിറ്റിവിറ്റിക്കുള്ള ഏറ്റവും മികച്ച സംഖ്യയായ ഇത് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ തന്ത്രം വളരെ ലളിതമാണ് ഞാൻ ക്ലാസ്സിഫിക്കേഷനൊന്നും ചെയ്യില്ല എല്ലാ ലേബലിനും ഞാൻ അതിനെ പോസിറ്റീവ് എന്ന് വിളിക്കും ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ ഇതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക ക്ലാസിഫയർ പ്രവചിക്കുന്നത് ഇതാണ് ഇതാണ് പ്രവചനത്തിന്റെ സത്യമോ തെറ്റോ ഇപ്പോൾ എല്ലാ ലേബലിനും പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫയർ എന്ന തന്ത്രമാണ് ഞാൻ കൊണ്ടുവരുന്നതെങ്കിൽ സെൻസിറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് ട്രൂ പോസിറ്റീവ് ഉണ്ടാകും ഈ ഫാൾസ് നെഗറ്റീവ് 0 ആയിരിക്കും കാരണം നെഗറ്റീവ് പ്രവചനത്തോട് സംസാരിക്കും പക്ഷേ എനിക്ക് ഒരു ക്ലാസിഫയർ ഉണ്ട് അവിടെ ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് പോലെ അതിനോട് കളിക്കാൻ പോകുന്നില്ല അതിനാൽ ഇത് 0 ആയിരിക്കും അതിനാൽ ഇത് ട്രൂ പോസിറ്റിവിറ്റിയിൽ ട്രൂ പോസിറ്റീവ് സെന്സിറ്റിവിറ്റി 1 ആയിരിക്കും അതുപോലെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യാത്ത ഒരു ക്ലാസിഫയർ ഞാൻ കൊണ്ടുവന്നാൽ ഒന്നും ചെയ്യാതെ എല്ലാം ഒരു നെഗറ്റീവ് ലേബൽ ആണെന്ന് പറയുന്ന ഒരു ക്ലാസിഫയർ ആയാൽ അതിനു സ്പെസിഫിസിറ്റി വാല്യൂ ആയി 1 വരുമോ അതിനാൽ എനിക്ക് 1 ന്റെ സെൻസിറ്റിവിറ്റി മൂല്യം ലഭിക്കണമെങ്കിൽ ഞാൻ ലളിതമായി ഒരു ക്ലാസിഫയർ ഉപയോഗിച്ച് വരുന്നു അത് എല്ലാം പോസിറ്റീവ് ലേബൽ ആണെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല 1 ന്റെ സ്പെസിഫിസിറ്റി എനിക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ എല്ലാ ലേബലും നെഗറ്റീവ് ആണെന്ന് പറയുന്ന ഒരു ക്ലാസിഫയർ കൊണ്ടുവരാം ഈ രണ്ട് ക്ലാസിഫയറുകളും ഉപയോഗശൂന്യമാണ് അതിനാൽ എടുക്കാൻ ചിലത് നൽകേണ്ടതുണ്ട് അത് ഇവിടെ ഈ കർവ് കാണിക്കുന്നു നിങ്ങൾ ഒരു നോർമലൈസ്ഡ് ഏരിയ എടുത്ത് ROC യുടെ കീഴിലുള്ള ഈ പ്രദേശം ഈ മഞ്ഞ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് മികച്ചത് ആണെന്നത് നിങ്ങൾ ശ്രദ്ധിക്കും ROC കർവുകൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് അതിനർത്ഥം റോക്ക് കർവിന് കീഴിലുള്ള പ്രദേശം 1 ന് അടുത്ത് പോകുമ്പോൾ എനിക്ക് കൂടുതൽ മികച്ച ക്ലാസിഫയർ ഡിസൈനുകൾ ലഭിക്കുന്നു എന്നാണ് അതിനാൽ പൊതുവെ കർവിന് കീഴിലുള്ള വിസ്തീർണ്ണം 0 9 നും 1 നും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ ഒരു മികച്ച ക്ലാസിഫയർ എന്ന് വിളിക്കും അതുപോലെ ഗുഡ് ഫെയർ പുവർ എന്നീ നിർവചനങ്ങൾ നൽകും യഥാർത്ഥത്തിൽ ROC കർവ് ഈ രേഖയ്ക്ക് താഴെയാണ് പോകുന്നതെങ്കിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ ഡാറ്റയിലും മറ്റും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അതിനാൽ ഇത് ഒരൊറ്റ ക്ലാസിഫയറിനുള്ളതാണ് എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി ക്ലാസിഫയറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ക്ലാസിഫയർ മോഡൽ 1 എന്ന് ഞാൻ പറയും ഇത് മോഡൽ 2 ക്ലാസിഫയർ മോഡൽ 3 എന്നിവയ്ക്കൊപ്പമുള്ള ക്ലാസിഫയറാണ് തുടർന്ന് ഈ ക്ലാസിഫയർ ഈ ക്ലാസിഫയറിനേക്കാൾ മികച്ചതാണ് കാരണം നിങ്ങൾ ഏതെങ്കിലും സെൻസിറ്റിവിറ്റി ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് സ്പെസിഫിസിറ്റിയിൽ ഉപേക്ഷിക്കുന്നു കാരണം ക്ലാസിഫയർ 3 ന്റെ മികച്ച സ്പെസിസിറ്റി പോയിന്റ് ഇതിലും കുറവാണ് അതിനാൽ അതേ സെൻസിറ്റിവിറ്റി ലഭിക്കാൻ എനിക്ക് ഇത് തിരഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ സ്പെസിഫിസിറ്റികൾ നൽകേണ്ടതുണ്ട് അതിനാൽ വ്യത്യസ്ത ക്ലാസിഫയറുകളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബെഞ്ച്മാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു പ്രധാന ആശയമാണ് അതിനാൽ വിവിധ ക്ലാസിഫയറുകളുടെ പ്രകടനത്തെ നിങ്ങൾക്ക് എങ്ങനെ ബെഞ്ച്മാർക്ക് ചെയ്യാമെന്നും കൺഫ്യൂഷൻ മാട്രിക്സ് ഉപയോഗിച്ചും മറ്റും സാധാരണയായി കാണുന്ന സംഖ്യകളെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും ഇത് നിങ്ങൾക്ക് ഒരു ആശയം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ലെക്ച്ചറാണ് അതിനാൽ ഈ കേസ് പഠനങ്ങൾ നടത്തുമ്പോൾ റിസൾട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ അവ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും ഈ റിസൾട്ടുകൾ എങ്ങനെ മനസിലാക്കണമെന്നും നിങ്ങൾക്കറിയാം വളരെ നന്ദി അടുത്ത പ്രഭാഷണത്തിൽ ലോജിസ്റ്റിക്സ് റിഗ്രഷനെക്കുറിച്ചുള്ള ഒരു കേസ് പഠനം നിങ്ങൾക്ക് അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് രണ്ട് വ്യത്യസ്ത തരം ടെക്നിക്കുകളെക്കുറിച്ച് സംസാരിക്കും ഒന്നിനെ വിളിക്കുന്നത് K എന്നാണ് അതിനർത്ഥം ക്ലസ്റ്ററിംഗ് എന്നാണ് മറ്റൊന്ന് അയൽപക്കത്തെ നോക്കുകയും വളരെ നോൺപാരാമെട്രിക് രീതിയിൽ ക്ലാസ്സിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു ഇതിനെ K നിയറെസ്റ് നെയിബർ അപ്പ്രോച്ച് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ രണ്ടിനെക്കുറിച്ചും ഞാൻ പിന്നീടുള്ള പ്രഭാഷണങ്ങളിൽ സംസാരിക്കും